ഈ പാഠത്തിൽ നമ്മൾ രൂപകൽപ്പന ചെയ്ത വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സിനെക്കുറിച്ച് കൂടുതൽ പരിശോധിക്കും കൂടാതെ സാധാരണയായി കണ്ടുമുട്ടുന്ന ചില പദങ്ങളും മനസ്സിലാക്കുകയും ചെയ്യും ഇപ്പോൾ ഒരൊറ്റ MOS ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുള്ള നമ്മുടെ വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സും ഇതുപോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത് സോഴ്സിൽ കറന്റ് സോഴ്സുമായി നമ്മൾ അതിനെ ബയസ് ചെയ്യുന്നു ഡ്രെയിനിനെ ബയസ് ചെയ്യുന്നതിനുള്ള ഏറ്റവും സാധാരണമായ മാർഗ്ഗം ഒരു ബയാസ് റെസിസ്റ്റർ RD വഴിയാണ് നമ്മൾ അതിലേക്ക് ലോഡ് എസി കപ്പിൾ ചെയ്തു ട്രാൻസ് കണ്ടക്റ്റൻസ് R1 നിർവചിക്കുന്ന റെസിസ്റ്ററിനെ നമ്മൾ കപ്പിൾ ചെയ്യുന്നു ഒപ്പം നമ്മൾ ഇൻപുട്ടും എസി കപ്പിൾ ചെയ്യുന്നു ഇപ്പോൾ ഫീഡ്ബാക്ക് നിയന്ത്രിക്കുന്ന അളവ് ഡ്രെയിനിലെ സ്മാൾ സിഗ്നൽ ഇൻക്രിമെന്റൽ കറന്റാണ് gmR1 1 ആണെങ്കിൽ iovi 1R1ഉം ആണ് ഈ പ്രത്യേക സർക്യൂട്ടിൽ ഈ io അവയുടെ മൂല്യങ്ങളുടെ വിപരീത അനുപാതമായ RD യും RL തമ്മിൽ വിഭജിക്കുന്നു അതിനാൽ ഇവിടെ ഒഴുകുന്ന വൈദ്യുതധാര ശരിക്കും ioRDRDRL ആണ് ഇപ്പോൾ ഇത് ഒരു വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സാണെങ്കിലും ഇത് വോൾട്ടേജ് ഔട്ട്പുട്ടിനൊപ്പം ഉപയോഗിക്കുന്നു കറന്റിനു പകരം ഔട്ട്പുട്ട് വോൾട്ടേജ് അളക്കുന്നു അത് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇത് vo എന്ന് ഞാൻ നിർവചിക്കുകയാണെങ്കിൽ ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ് vo io RDRDRLRL അടിസ്ഥാനപരമായി ഈ io RD RL എന്നിവയുടെ സമാന്തര സംയോജനത്തിലൂടെയാണ് കടന്നുപോകുന്നത് അതിന്റെ പൊളാരിറ്റി കാരണം നമുക്ക് ഒരു നെഗറ്റീവ് ചിഹ്നം ലഭിക്കുന്നു ഞാൻ ഇത് വികസിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് -gm1gmRLviRD||RL ലഭിക്കും അതിനാൽ അതായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് ഈ അവസ്ഥ തൃപ്തിപ്പെടുമ്പോൾ gmR1 1 ആയിരിക്കുമ്പോൾ ഇത് ഏകദേശം viRD||RLR1 ആണ് അതിനാൽ ആ വഴിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഗൈൻ വോൾട്ടേജ് ഗൈൻ നിർവചിക്കുന്നത് റെസിസ്റ്ററുകളുടെ അനുപാതമാണ് അത് കൃത്യമായി നിർവചിക്കാൻ കഴിയും ഇത് ഒരു MOS ട്രാൻസിസ്റ്ററിന്റെ ട്രാൻസ് കണ്ടക്ടൻസ് നിർവചിക്കുന്നതിനേക്കാൾ കൂടുതൽ കൃത്യമാണ് ഇത് താപനിലയോടും മറ്റും വ്യത്യാസപ്പെടുന്നു പ്രത്യേകിച്ചും ഒരു ഐസിയിൽ റെസിസ്റ്ററുകളുടെ അനുപാതം കൃത്യമായി നിർണ്ണയിക്കാൻ കഴിയും ഔട്ട്പുട്ട് വോൾട്ടേജ് ഞാൻ പരിഗണിച്ചിട്ടുണ്ടെങ്കിലും ഇത് വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സല്ല ലോഡ് റെസിസ്റ്ററുള്ള വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സാണിത് ഇവ രണ്ടും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അത് ശരിക്കും ഒരു വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സാണെങ്കിൽ ലോഡ് റെസിസ്റ്റൻസിന്റെ മൂല്യം മാറ്റുകയോ ഇതിന് സമാന്തരമായി മറ്റൊരു റെസിസ്റ്റൻസിനെ ബന്ധിപ്പിക്കുകയോ ചെയ്യുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജിൽ മാറ്റം വരുത്തരുത് ഈ സാഹചര്യത്തിൽ അത് തീർച്ചയായും ഔട്ട്പുട്ട് വോൾട്ടേജിൽ മാറ്റം വരുത്തുന്നു ഈ io ഉറപ്പിച്ചു അത് നിങ്ങൾ കണക്റ്റുചെയ്യുന്ന ലോഡിൽ നിന്ന് വ്യത്യസ്തമാണ് അതിനാൽ നിങ്ങൾ ബന്ധിപ്പിക്കുന്ന ലോഡ് റെസിസ്റ്റൻസിനെ ആശ്രയിച്ചിരിക്കും വോൾട്ടേജ് vo അതിനാൽ ഇത് ശരിക്കും ഒരു റെസിസ്റ്റീവ് ലോഡുള്ള ഒരു വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സാണ് ഇത് ഇതുപോലെയാണ് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഇത് ചർച്ച ചെയ്യില്ല പക്ഷേ ഈ io ചില അനുരണന സർക്യൂട്ടുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ഒരു അനുരണന ആംപ്ലിഫയർ രൂപപ്പെടുകയും ചെയ്യുന്നു പല RF സർക്യൂട്ടുകളിലും ഇത് ഉപയോഗിക്കുന്നു നമ്മൾ അവയെക്കുറിച്ച് ചർച്ച ചെയ്യില്ല എന്നാൽ ഈ വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സും നിങ്ങൾക്ക് വിവിധതരം ലോഡുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത തരം പ്രവർത്തനങ്ങൾ നൽകും ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ സർക്യൂട്ട് വളരെ സാമ്യമുള്ളതാണ് ഇത് പകർത്താൻ അനുവദിക്കുക ഞാൻ അതേ സർക്യൂട്ടിൽ പകർത്തി കൂടാതെ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സോഴ്സ് ഫീഡ്ബാക്ക് ബയസ് ഉള്ള ഒരു കോമൺ സോഴ്സ് ആംപ്ലിഫയറിനോടുള്ള സമാനതയാണ് ഇപ്പോൾ സോഴ്സ് ഫീഡ്ബാക്ക് ബയസ് ഉള്ള ആ സർക്യൂട്ട് കോമൺ സോഴ്സ് ആംപ്ലിഫയറിലേക്ക് ഞാൻ മടങ്ങാം ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് എന്താണുള്ളത് ഇതും സർക്യൂട്ടും തമ്മിലുള്ള ഒരേയൊരു വ്യത്യാസം ഈ R1 അവിടെയില്ല എന്നതാണ് അത് ഷോർട്ട് സർക്യൂട്ട് ചെയ്തതാണ് C3 നേരിട്ട് ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചതുമായിരുന്നു നിങ്ങൾ C3 തിരഞ്ഞെടുക്കുക അതിന്റെ റിയാക്റ്റൻസ് 1gm നേക്കാൾ വളരെ ചെറുതാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ C3 ഇവിടെ 𝜔 സിഗ്നൽ ആവൃത്തിയാണ് ഇപ്പോൾ ഈ കേസിന്റെ ഫലം നമുക്കറിയാം ഇതും ഒരു വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സ് ആണ് ഇതിനെ io എന്ന് വിളിക്കട്ടെ എല്ലാത്തിനുമുപരി സ്മാൾ സിഗ്നൽ എന്താണ് അത് ഇൻപുട്ട് സോഴ്സാണ് കപ്പാസിറ്റർ ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കട്ടെ നമുക്ക് R1 ∥ R2 ഉണ്ട് അതിനൊപ്പം നമുക്ക് സോഴ്സ് ഗ്രൌണ്ട് ചെയ്ത ട്രാൻസിസ്റ്റർ ഉണ്ട് ഈ രീതിയിലാണ് നമ്മൾ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത് നമുക്ക് vgs ഉണ്ട് വർദ്ധിച്ചുവരുന്ന ഡ്രെയിൻ കറന്റാണ് gmvgs അതിനാൽ ഇത് io gmvgs അല്ലാതെ മറ്റൊന്നുമല്ല അത് RD RL എന്നിവയുടെ സമാന്തര സംയോജനത്തിലേക്ക് പോകുന്നു ഇപ്പോൾ നിങ്ങൾ ഇവിടെ vo ഔട്ട്പുട്ട് വോൾട്ടേജ് നോക്കുകയാണെങ്കിൽ അത് എന്താണെന്ന് നമുക്കറിയാം നമ്മൾ ഇത് നിരവധി തവണ കണക്കാക്കിയതാണ് അത് -gmRD||RLvi ആണ് അതിനാൽ ഇതാണ് കോമൺ സോഴ്സ് ആംപ്ലിഫയർ ഇത് റെസിസ്റ്റീവ് ലോഡുള്ള വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സ് ആണ് വാസ്തവത്തിൽ ഇതൊരു റെസിസ്റ്റീവ് ലോഡുള്ള ഒരു വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സ് കൂടിയാണ് ഇവിടെ വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സ് MOS ട്രാൻസിസ്റ്റർ തന്നെയാണ് ഇതും ഒരു വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സാണ് ഇവ രണ്ടും തമ്മിലുള്ള ഒരേയൊരു വ്യത്യാസം ഇൻപുട്ട് വോൾട്ടേജിലേക്കുള്ള ഔട്ട്പുട്ട് കറന്റ് MOS gm നിർവചിക്കുന്നു എന്നതാണ് അതേസമയം ഇവിടെ നിങ്ങൾ gmR11 തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് കറന്റും ഇൻപുട്ട് വോൾട്ടേജും തമ്മിലുള്ള അനുപാതം ഈ റെസിസ്റ്റർ R1 ആണ് നിർവചിക്കുന്നത് അതിനാൽ അവ പ്രവർത്തനക്ഷമതയിൽ വളരെ സാമ്യമുള്ളതാണ് അതിനാലാണ് ഈ പ്രത്യേക ആംപ്ലിഫയറിനെ സോഴ്സ് അപചയത്തോടുകൂടിയ കോമൺ സോഴ്സ് ആംപ്ലിഫയർ എന്നും വിളിക്കുന്നത് അപചയം എന്നാൽ എന്തെങ്കിലും പതിക്കുകയോ കുറയുകയോ ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ കുറയുന്നത് ട്രാൻസ് കണ്ടക്ടൻസ് ആണ് ഈ സാഹചര്യത്തിൽiovigm1gmR11R1gm ഇത് തീർച്ചയായും MOS ട്രാൻസിസ്റ്ററിന്റെ gm നേക്കാൾ ചെറുതായിരിക്കും വാസ്തവത്തിൽ നിങ്ങൾ gmR1 വളരെ വലുതായി തിരഞ്ഞെടുക്കുന്നു അതിനാൽ ഇവിടെ ഈ സംഖ്യ gm നേക്കാൾ അല്പം ചെറുതായിരിക്കും ഇത് ഒരു MOS ട്രാൻസിസ്റ്ററിന്റെ ട്രാൻസ് കണ്ടക്ടൻസ് മാത്രമാണ് അതേസമയം ഇതാണ് യഥാർത്ഥ കോമൺ സോഴ്സ് ആംപ്ലിഫയർ അതിനാൽ സോഴ്സ്സുമായി സീരീസിൽ ഒരു റെസിസ്റ്റൻസ് സ്ഥാപിക്കുന്നതിലൂടെ ട്രാൻസിസ്റ്ററിന്റെ gm പതിക്കുന്നുവെന്നും ഒരു സ്മാൾ സിഗ്നൽ ചിത്രമായി വരച്ചാൽ ഇത് വ്യക്തമാകുമെന്നും പറയപ്പെടുന്നു ലാളിത്യത്തിനായി ഞാൻ ബയാസ് റെസിസ്റ്ററുകളായ R1 R2 എന്നിവ ഒഴിവാക്കും കൂടാതെ എല്ലാ കപ്പാസിറ്ററുകളും ഷോർട്ട് സർക്യൂട്ടുകളാണെന്നും ഞാൻ അനുമാനിക്കും റെസിസ്റ്റീവ് ലോഡുള്ള ഒരു വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സും ഞാൻ സൂചിപ്പിച്ചതുപോലെ വോൾട്ടേജ് ഔട്ട്പുട്ടിനൊപ്പം ഉപയോഗിക്കുന്നു ഇത് ഇതുപോലെയാണ് കാണപ്പെടുന്നത് ഇത് gm ഉം ഈ അളവ് vgs ഉം ആണ് ഇവ MOS ട്രാൻസിസ്റ്ററിന്റെ ഡ്രെയിൻ ഗേറ്റ് സോഴ്സ് ടെർമിനലുകൾ എന്നിവയാണ് കോമൺ സോഴ്സ് ആംപ്ലിഫയർ തീർച്ചയായും വളരെ സമാനമാണ് റെസിസ്റ്റൻസ് ഇല്ല എന്നതൊഴിച്ചാൽ സോഴ്സ് ഗ്രൌണ്ട് മായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഞാൻ ഇവിടെ ഇതിനെ i0 എന്ന് വിളിക്കുകയാണെങ്കിൽ ഇവിടെ gmR1 1 ആണെങ്കിൽ iovigm1gmR11R1 ആയിരിക്കും ഈ സാഹചര്യത്തിൽ iovigmആണ് അതിനാൽ ഇതിന് ഒരു ചെറിയ ട്രാൻസ് കണ്ടക്ടൻസ് ഉണ്ട് io ബൈ vi ഉണ്ട് ഇത് സോഴ്സ് ടെർമിനലും ഗ്രൌണ്ടും തമ്മിലുള്ള ഒരു റെസിസ്റ്റൻസ് ബന്ധിപ്പിച്ച് ട്രാൻസിസ്റ്ററിനെ ഡിജെനറേറ്റ് ചെയ്യുന്നുവെന്ന് വിശേഷിപ്പിക്കുന്നു എന്താണ് സംഭവിക്കുന്നതെന്നാൽ ഇവിടെ ഫലപ്രദമായ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് vi നേക്കാൾ ചെറുതാണ് അതേസമയം ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് vi ന് തുല്യമാണ് അതിനാൽ ട്രാൻസ് കണ്ടക്ടൻസ് കുറയുന്നു പക്ഷേ നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ട്രാൻസ് കണ്ടക്ടൻസ് കുറയ്ക്കുന്നത് ഒന്നാമതായി ചില അഭികാമ്യമായ ഗുണങ്ങളുള്ള gm ൽ നിന്ന് ഇത് സ്വതന്ത്രമായിത്തീരുന്നു കാരണം gm വളരെ സെൻസിറ്റീവ് താപനിലയും മറ്റുമാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാത്ത മറ്റൊരു വശം ഈ സർക്യൂട്ട് ഇതിനെ അപേക്ഷിച്ച് കൂടുതൽ രേഖീയമാണ് അതായത് ഈ സർക്യൂട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ MOS ട്രാൻസിസ്റ്ററിനെ വളരെ കഠിനമായ നോൺ ലീനിയറിറ്റിയിലേക്ക് ഡ്രൈവ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഒരു വലിയ സിഗ്നൽ Vi യുടെ വലിയ മൂല്യം ഇതിലേക്ക് പ്രയോഗിക്കാൻ കഴിയും അത് നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ മറ്റൊരു സവിശേഷതയാണ് തീർച്ചയായും ഞാൻ അവ്യക്തമായി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കാരണം ഇത് കൃത്യമായി വ്യക്തമാക്കുന്നതിന് നിങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് താരതമ്യങ്ങളും നടത്തേണ്ടതുണ്ട് ഇവിടെയുള്ള ട്രാൻസ് കണ്ടക്ടൻസ് ഇതിനെക്കാൾ ചെറുതാണ് എന്നാൽ പൊതുവേ സർക്യൂട്ട് കൂടുതൽ രേഖീയമാണ് ഇത് ട്രാൻസിസ്റ്ററിനെ ഡിജെനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഈ റെസിസ്റ്ററിനെ ചിലപ്പോൾ ഡീജനറേഷൻ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുകയും ചെയ്യുന്നു കൂടാതെ ഔട്ട്പുട്ട് കറന്റിനുപകരം നിങ്ങൾ ഔട്ട്പുട്ട് വോൾട്ടേജ് vo യിലേക്ക് നോക്കും ഈ സാഹചര്യത്തിൽ നമുക്ക് vovi RD||RLR1 ഉണ്ടാകും ഇതേ അവസ്ഥയിൽ വീണ്ടും ഈ gmR1 1 ഉം vovi gmRD||RL ആണ് അതിനാൽ ഡീജനറേറ്റഡ് MOS ആംപ്ലിഫയർ എന്ന ഈ പദാവലി ഒരുപാട് തവണ നമ്മൾ കാണുന്നു ഇത് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് സോഴ്സിൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മുഴുവൻ ബ്ലോക്കിനെക്കുറിച്ചും ഈ മൂന്ന് ടെർമിനലുകളെക്കുറിച്ചും അതായത് ഇതും ഇതും ഇതും ത്രീ ടെർമിനൽ പരിധിയായി ചിന്തിക്കാം അതിന്റെ gm MOS ട്രാൻസിസ്റ്ററിനേക്കാൾ വളരെ ചെറുതാണ് അതിനാൽ ഇതാണ് ഡീജെനറേഷൻ അർത്ഥമാക്കുന്നത് മാത്രമല്ല ഈ സർക്യൂട്ട് വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന അടിസ്ഥാന ബിൽഡിംഗ് ബ്ലോക്കും ആണ്